ലാപ്ലേസ് പോയിസ്സോൻ ഇക്വേഷൻസ് സൊല്യൂഷൻസിന്റെ യൂണിക്ക്നെസ്സ് പൊട്ടൻഷ്യൽ പോയിസ്സോൻ ഇക്വേഷൻ അനുസരിക്കുന്നു എന്ന് നാം പഠിച്ചു അതായത് പൊട്ടൻഷ്യലിന്റെ ലാപ്ലാസിയൻ എന്നത് ആ പോയിന്റിലെ മൈനസ് ചാർജ് ഡെന്സിറ്റി ഭാഗം എപ്സിലോൺ 0 ആണ് അല്ലെങ്കിൽ ലാപ്ലേസ് ഇക്വേഷന്റെ ഒരു പ്രത്യേക സാഹചര്യം ചാർജ് ഇല്ലാത്ത ഇടങ്ങളിൽ ഡെൽ സ്ക്വയർ V 0 ആയിരിക്കും എന്നതാണ് ഇതിനു പരിണിത ഫലങ്ങളുണ്ട് ഇവ പൊട്ടൻഷ്യലിന്റെ ഡിഫറെൻഷ്യൽ ഇക്വേഷനുകളാകുന്നു എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കിവ പൊട്ടൻഷ്യൽ കാണുവാൻ ഉപയോഗിക്കണമെന്നുണ്ടെ ങ്കിൽ ഇവ ഉചിതമായ ബൌണ്ടറി കൺഡിഷനുകൾ സഹിതം ഒറ്റ ഉത്തരം നൽകണം പരിണിത ഫലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഡെൽ സ്ക്വയർ യു V 0 ആണെങ്കിൽ നിശ്ചിത പോയിന്റിൽ പൊട്ടൻഷ്യൽ മിനിമമോ അല്ലെങ്കിൽ മാക്സിമമോ അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ മാക്സിമം ആകണമെങ്കിൽ അതിന്റെ മറു വശത്തു ഒരു പോയിന്റിൽ മിനിമം ആയിരിക്കണം ഇത് സങ്കല്പിക്കുന്നതിനുള്ള ഒരു നല്ല രീതി നിങ്ങളുടെ കൈയുടെ ഈ ഭാഗത്തു നോക്കുക നിങ്ങൾ വിരലുകളുടെയും തള്ളവിരലിന്റെയും ഭാഗത്തു നിന്ന് വരുകയാണെങ്കിൽ നിങ്ങൾ ഒരു മിനിമം കാണുന്നു അതെ സമയം കൈപ്പത്തിയുടെ ഭാഗത്തു നിന്നും മറുവശത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാക്സിമം കാണുന്നു അപ്പോൾ ഇവിടെ മിനിമമോ മാക്സിമമോ ഇല്ല ഇത് സാഡിൽ പോയിന്റ് എന്നറിയപ്പെടുന്നു ഇവിടെ ആണ് ഈ അളവിന്റെ ഡെൽ സ്ക്വയർ 0 ആകാൻ പോകുന്നത് ഉയരം എന്ത് തന്നെ ആയാലും ഇതിന്റെ അർഥം എന്തെന്നാൽ ഒരു ചാർജ് രഹിത സ്ഥലത്തു ഒരു ചാർജിന് ഇക്വിലിബ്രിയം പോയിന്റ് ഇല്ല എന്നതാണ് നമുക്കിത് മനസിലാക്കാം ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം ഇല്ലെങ്കിൽ അതിനർത്ഥം പൊട്ടൻഷ്യൽ ഒരു ഭാഗത്ത് ഒരു മാക്സിമത്തിൽ കൂടി കടന്ന് മറു ഭാഗത്ത് ഒരു മിനിമത്തിൽ കൂടി പോകുന്നു എന്നാണ് ഞാൻ ഇവിടെ ഒരു ചാർജ് വച്ചാൽ അത് ഒരു പക്ഷെ ഈ ദിശയിൽ സ്ഥിരമായിരിക്കും അതായത് ഒരു മിനിമത്തിൽ കൂടി പോകുന്നു മറു ഭാഗത്ത് ഇത് അകലേക്ക് പോകാൻ തുടങ്ങുന്നു ഇത് ഡെൽ സ്ക്വയർ V 0 ആകുന്നതിന്റെ ഒരു ഫലമാണ് ഇത് ഗണിത പരമായി കാണുന്ന ഒരു രീതി താഴെ പറയുന്നു ഒരു പോയിന്റ് ഉണ്ടെന്നു വിചാരിക്കുക അവിടെ ഒരു മാക്സിമം ഉണ്ട് ഞാൻ അതിനു ചുറ്റും ചെറിയ ഒരു സ്ഫിയർ എടുത്ത് സർഫേസിലെ V യുടെ ഡൈവേർജെൻസ് ഉം ഗ്രേഡിയന്റും എടുക്കുന്നു ഇത് ഡൈവേർജെൻസ് തിയറം അനുസരിച്ച് ഈ വോളിയം ൽ ഡൈവേർജെൻസ് ഗ്രേഡ് V ആകുന്നു ഇത് ഡൈവേർജെൻസ് തിയറം അനുസരിച്ച് സർഫേസിൽ ഗ്രേഡ് V ഡോട്ട് d s ആകുന്നു ഇതൊരു മാക്സിമമോ മിനിമമോ ആണെങ്കിൽ ഗ്രേഡ് V സർഫേസ് ആകമാനം ഒരേ ചിഹ്നമായിരിക്കും അപ്പോൾ ഈ പോയിന്റ് V യുടെ മാക്സിമമോ മിനിമമോ ആണെങ്കിൽ ഗ്രേഡ് V ക്ക് സർഫേസ് ഒട്ടാകെ ഒരേ ചിഹ്നമായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ഇന്റഗ്രേഷൻ ഗ്രേഡ് V ഡോട്ട് ഡിസ് 0 അല്ല എന്നാണ് അതെ സമയം ഡെൽ സ്ക്വയർ V d V 0 ആണ് ഇവിടെ ഞാൻ ഒരു വൈരുദ്ധ്യം കാണുന്നു ഇതിനർത്ഥം ഞാൻ മാക്സിമമിലോ മിനിമമിലോ ആണെന്ന് ഉള്ള എന്റെ തുടക്കത്തിലുള്ള അസംപ്ഷൻ തെറ്റാണ് എന്നതാണ് അപ്പോൾ അവ മാക്സിമമോ മിനിമമോ അല്ല ഇത് മനസ്സിലാക്കുന്നതിനുള്ള ഭൌതിക രീതി താഴെ പറയുന്നു ഗാസ് ലോ പറയുന്നത് ഒരു ചാർജ് മുക്തമായ ഇടത്ത് ഈ ഡോട്ട് d s 0 ആണ് ഇതിനർത്ഥം ഏതെങ്കിലും ഇലക്ട്രിക്ക് ഫീൽഡ് വരികയും പോവുകയും ചെയ്യുന്നിടത് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ചാർജ് ഒരിക്കലും ഇക്വിലിബ്രിയമിൽ ആയിരിക്കുകയില്ല എന്തെന്നാൽ അകത്തേക്ക് വരുന്ന രേഖകളെല്ലാം പുറത്തു പോകുന്നു അപ്പോൾ ചാർജ് പുറത്തേക്കുള്ള ദിശയിൽ നീങ്ങാൻ തുടങ്ങുന്നു ഇത് ഡെൽ സ്ക്വയർ V 0 എന്നതിന് തുല്യമാണ് ഇത് ഏൺഷാസ് തിയറം എന്നറിയപ്പെടുന്നു അതായത് ഒരു ചാർജ് മുക്തമായ സ്ഥലത്ത് ഒരു ചാർജിന് ഇക്വിലിബ്രിയമിൽ നിൽക്കുവാൻ സാധ്യമല്ല നമുക്കിപ്പോൾ യൂണിക്ക്നെസ്സ് ഓഫ് സൊല്യൂഷൻ എന്നതിലേക്ക് കടക്കാം ലാപ്ലേസ് ഇക്വേഷന്റെ ഒരു ബൌണ്ടറി കണ്ടിഷനിൽ ഉള്ള യൂണിക്ക്നെസ്സ് ഓഫ് സൊല്യൂഷൻ ബൌണ്ടറി കണ്ടിഷൻ എന്നത് ഒരു ബൌണ്ടറിയിൽ എന്താണ് പൊട്ടൻഷ്യൽ നൽകിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ നമുക്ക് ഒരു ക്ലോസ്ഡ് ബൌണ്ടറി എടുക്കാം ഇത് ഒരു പക്ഷെ ഇൻഫിനിറ്റിയിൽ ആയിരിക്കാം നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് ഇത് വി0 ആണെന്ന് വിചാരിക്കുക ഈ ബൌണ്ടറിക്കുള്ളിൽ ഒരു ചാർജ് റോ ആർ പ്രൈം ഉണ്ടെന്നു വിചാരിക്കുക അപ്പോൾ ഡെൽ സ്ക്വയർ V സമം റോ ആർ ഭാഗം എപ്സിലോൺ 0 ഇവിടെ രണ്ടു സൊല്യൂഷനുകൾ V1r ഉം V2r ഉം ഉണ്ടെന്നു വിചാരിക്കുക ഇവ രണ്ടും ഇക്വേഷനെയും ബൌണ്ടറി കണ്ടിഷനെയും സാധൂകരിക്കുന്നു ഒരു ഫങ്ഷൻ ഫൈ ആർ V സമം വി1 മൈനസ് വി2 ഉണ്ടെന്ന് വിചാരിക്കുക ഇത് ഡെൽ സ്ക്വയർ ഫൈ സമം 0 യെ സാധൂകരിക്കുന്നു ഫൈ ബൌണ്ടറിയിൽ 0 ആയിരിക്കും എന്തെന്നാൽ ഫൈ എന്നത് ഒരേ ബൌണ്ടറി കണ്ടിഷൻ അനുസരിക്കുന്ന രണ്ടു പൊട്ടൻഷ്യലുകളുടെ വ്യത്യാസമാണ് രണ്ടും ഒരേ പോയിസ്സോൻസ് ഇക്വേഷനും അനുസരിക്കുന്നു നമുക്കിപ്പോൾ ഫൈ ഗ്രേഡ് ഫൈ യുടെ ഡൈവേർജെൻസ് പരിശോധിക്കാം ഇത് ഘടകങ്ങൾ എടുക്കുന്നതിലൂടെ എളുപ്പത്തിൽ ചെയ്യാം ഇത് ഗ്രേഡ് ഫൈ സ്ക്വയർ പ്ലസ് ഫൈ ഗ്രേഡ് സ്ക്വയർ ഫൈ ക്ക് സമമാണ് ഇതിനു സമാനമായി ഒന്ന് d dx f df dx df dx 2 f d 2 f d x 2 ആണ് ഇപ്പോൾ ഞാനിതിനെ യൂണിക്നെസ്സ് കാണാൻ പോകുകയാണ് നമുക്ക് ഡൈവേർജെൻസ് ഫൈ ഗ്രേഡ് ഫൈ യുടെ രണ്ടു വശവും ഇന്റഗ്രേറ്റ് ചെയ്യാം ഇത് ഞാൻ വോളിയം നു മുകളിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് മോഡ് ഗ്രേഡ് ഫൈ സ്ക്വയർ പ്ലസ് ഫൈ ഡെൽ സ്ക്വയർ ഫൈ ആണ് നാം ഡെൽ സ്ക്വയർ ഫൈ 0 ആണെന്ന് നേരത്തെ കണ്ടു അതിനാൽ ഈ ടേം പോകുന്നു ഇടതു വശത്ത് ഡൈവേർജെൻസ് തിയറം ഉപയോഗിച്ച് ഫൈ ഗ്രേഡ് ഫൈ ഡോട്ട് d s സർഫേസിനു മുകളിൽ ചെയ്യുമ്പോൾ ഇത് ഗ്രേഡ് ഫൈ സ്ക്വയർ d V ആണ് പക്ഷെ ഫൈ എന്നത് സർഫേസിൽ 0 ആണെന്ന് നാം കണ്ടു അതിനാൽ ഈ ടേമും പോകുന്നു അപ്പോൾ നമുക്ക് ഗ്രേഡ് ഫൈ സ്ക്വയർ d V സമം 0 എന്ന് കിട്ടും എന്തായാലും ഗ്രേഡ് ഫൈ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഗ്രേഡ് ഫൈ സ്ക്വയർ d V സമം 0 ആകയാൽ ഗ്രേഡ് ഫൈ 0 ആയിരിക്കും അതായത് ഡെറിവേറ്റീവ് ഫൈ 0 ആയിരിക്കും അതായത് ഫൈ കോൺസ്റ്റന്റ് ആയിരിക്കും അതിനർത്ഥം V 1 ന്റെയും V 2 വിന്റേയും വ്യത്യാസം കോൺസ്റ്റന്റ് ആണ് അവ ഒരേ ബൌണ്ടറിയിൽ ആകയാൽ ഈ കോൺസ്റ്റന്റ് 0 ആണ് ഇത് സൂചിപ്പിക്കുന്നത് V 1 സമം V 2 ആണ് അതിനർത്ഥം തന്നിട്ടുള്ള ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷനെ സംബന്ധിച്ച് പോയിസ്സോൻസ് ഇക്വേഷന്റെ ഉത്തരം പൊട്ടൻഷ്യൽ യൂണിക് ആണ് ഒരേ പോയിസ്സോൻ ഇക്വേഷനും ബൌണ്ടറി കണ്ടിഷനും റോ 0 വും ആണെങ്കിൽ രണ്ടു വ്യത്യസ്ത പൊട്ടൻഷ്യലുകൾ ഉണ്ടാകാൻ സാധ്യമല്ല റോ 0 ആണെന്നത് ഒരു പ്രത്യേക സാഹചര്യം ആണ് അതിനാൽ ഇതേ ബൌണ്ടറി കണ്ടിഷനുകൾക്ക് ലാപ്ലേസ് ഇക്വേഷനും ഇതേ ഉത്തരം നൽകുന്നു അപ്പോൾ ഡെൽ സ്ക്വയർ V സമം റോ ഭാഗം എപ്സിലോൺ 0 ക്ക് നൽകിയിട്ടുള്ള ബൌണ്ടറി കണ്ടിഷൻ പ്രകാരം ഒരു യൂണിക് ആയ സൊല്യൂഷൻ ഉണ്ട് നാം ഇതിൽ എത്തിച്ചേർന്നത് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ ഡൈവേർജൻസിൽ കൂടിയാണ് ഫൈ എന്നത് V 1 മൈനസ് V 2 ഇത് ഗ്രേഡ് ഫൈ സമം 0 എന്ന് കിട്ടുവാനായി നാം ഉപയോഗിച്ചു ബന്ധപ്പെട്ട ഭൌതിക പ്രതിഭാസം എന്തെന്നാൽ എനിക്ക് ചാർജ് ഇല്ലാത്ത ഒരു ക്ലോസ്ഡ് സർഫേസ് ഉള്ളിലും ചാർജ് ഇല്ലാത്തത് ബൌണ്ടറി എല്ലായിടത്തും V തുല്യമായത് ഉണ്ടെങ്കിൽ ഉള്ളിലെ ഫീൽഡ് 0 ആയിരിക്കും ഇത് നാം നേരത്തെ കണ്ട ഒരു മെറ്റാലിക് സ്ഫിയർ മായി വളരെ സാമ്യമുള്ളതാണ് നമുക്കിപ്പോൾ ഒരു മെറ്റാലിക് ഏതെങ്കിലും ആകൃതിയിലുള്ള മെറ്റൽ എടുക്കാം ഞാൻ ഇതിന് പൊട്ടൻഷ്യൽ നൽകുമ്പോൾ ഇത് മെറ്റൽ ആകയാൽ ഒരു ഇ ക്വിപൊട്ടൻഷ്യൽ സർഫേസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചാർജ് ഒരു വശത്തു നിന്നും മറു വശത്തേക്ക് ഒഴുകുകയും മെറ്റലിനുള്ളിലെ ഫീൽഡ് 0 ആകുകയും ചെയ്യുന്നു ഞാൻ ഇതുപോലെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ ക്ലോസ്ഡ് വോളിയം നിർമ്മിച്ചാൽ ഇതിന്റെ സർഫേസ് ആകമാനം ഒരേ പൊട്ടൻഷ്യൽ ഉള്ളിലെ ഫീൽഡ് 0 ആണ് ഡൈവേർജെൻസ് തിയറം ഉപയോഗിക്കുന്നതിനു മുൻപായി നമുക്കത് നോക്കാം ഇപ്പോൾ ഉള്ളിൽ ഡെൽ സ്ക്വയർ V 0 ആണ്എന്തെന്നാൽ ഉള്ളിൽ ചാർജ് ഇല്ല നമുക്ക് ഡൈവേർജെൻസ് V ഗ്രേഡ് V എടുക്കുക അത് ഗ്രേഡ് V സ്ക്വയർ പ്ലസ് V ലാപ്ലേസിയൻ V ആണ് പക്ഷെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലാത്തത് കാരണം ഡെൽ സ്ക്വയർ V 0 ആണ് നമുക്കിപ്പോൾ വോളിയം ഇന്റെഗ്രേലുകൾ എടുക്കാം ഡൈവേർജെൻസ് V ഗ്രേഡ് V സമം മോഡുലസ് ഗ്രേഡ് V സ്ക്വയർ d വോളിയം ഇടതു വശത്ത് ഇന്റഗ്രൽ V ഗ്രേഡ് V ഡോട്ട് സർഫേസ് സമം ഇന്റഗ്രൽ ഗ്രേഡ് V സ്ക്വയർ വോളിയുമിൽ വോളിയുമിന്റെ V യും പൊട്ടൻഷ്യലിന്റെ V യും തമ്മിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ സർഫേസിലെ V ഗ്രേഡ് V നോക്കുക യാണെങ്കിൽ സർഫേസിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ തുല്യമാണ് എന്ന് നാം പറഞ്ഞു അതിനാൽ V ഗ്രേഡ് V സർഫേസിനു മേൽ എന്ന് പറയേണ്ട കാര്യമില്ല എനിക്കിവിടെ V യുടെ ആവശ്യമില്ല അപ്പോളിത് ഇന്റഗ്രൽ ഗ്രേഡ് V ഡോട്ട് d s ആയി മാറുന്നു ഗ്രേഡ് V എന്താണ് ഇത് V മൈനസ് ഈ ഡോട്ട് d s ആണ് ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലാത്ത കാരണം ഗാസ്സ് നിയമം അനുസരിച്ച് ഈ ടേം 0 ആണ് അതിനാൽ ഇടതുവശം അപ്രത്യക്ഷമാകുന്നു ഇന്റഗ്രൽ ഗ്രേഡ് V മോഡ് സ്ക്വയർ d V എന്നത് 0 ആകുന്നു ഇതിനർത്ഥം ഉള്ളിൽ ഗ്രേഡ് V 0 ആണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ സർഫേസ് എടുത്താൽ ഉള്ളിലെ ഫീൽഡ് 0 ആയിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് വീട്ടിൽ ഒരു പരീക്ഷണം നടത്താം ഒരു മെറ്റാലിക് ബോക്സ് എടുത്ത് മൊബൈൽ ഫോൺ ഉള്ളിൽ വച്ചാൽ മൊബൈൽ ഫോൺ കോൾ ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഉള്ളിലെ ഫീൽഡ് 0 ആണ് വാവുകൾക്ക് ക്ലോസ്ഡ് മെറ്റാലിക് സർഫേസിന് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല ഇത് ഫാരഡേയ്സ് കേജ് എന്ന സംവിധാനം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നു നിങ്ങൾ ഒരു ഏതാണ്ട് ക്ലോസ് ആയ മെറ്റാലിക് സർഫേസ് എടുക്കുന്നു അതിനുള്ളിൽ ഇൻസ്ട്രുമെന്റസ് വച്ചാൽ അവ എലെക്ട്രിക്കൽ സിഗ്നലുകൾ വഴി കേടാവുകയില്ല എന്തെന്നാൽ നാം വെളിയിൽ എന്ത് തന്നെ ചെയ്താലും ഉള്ളിൽ ഫീൽഡ് 0 ആയിരിക്കും എന്തെന്നാൽ മെറ്റാലിക് സർഫേസ് അല്ലെങ്കിൽ മെഷിലെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും